MOS ട്രാൻസിസ്റ്ററിന്റെ വലിയ സിഗ്നൽ മോഡൽ നമുക്ക് ഇപ്പോൾ പരിചിതമാണ് ഈ പാഠത്തിൽ ഞങ്ങൾ ചെറിയ സിഗ്നൽ മോഡൽ നോക്കും ഇപ്പോൾ വലിയ സിഗ്നൽ മോഡൽ ഇവിടെ നൽകിയിരിക്കുന്നു ചെറിയ സിഗ്നൽ മോഡൽ തീർച്ചയായും ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ആശ്രയിച്ചിരിക്കുന്നു ഓരോ മേഖലയിലും ചെറിയ സിഗ്നൽ പരാമീറ്ററുകൾക്കായി നമുക്ക് വ്യത്യസ്തമായ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും ഇപ്പോൾ ഏറ്റവും താൽപ്പര്യമുള്ള മേഖല ഇതായിരുന്നു സാച്ചുറേഷൻ മേഖല കട്ട് ഓഫിൽ തീർച്ചയായും ഒന്നുമില്ല കറന്റ് പൂജ്യമാണ് അതിനാൽ ചെറിയ സിഗ്നൽ മോഡലിൽ ഒന്നുമില്ല ചെറിയ സിഗ്നൽ കറന്റ് ഇൻക്രിമെന്റൽ കറന്റ് പൂജ്യമാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രയോഡ് മേഖലയിൽ കുറച്ച് ഇൻക്രിമെന്റൽ മോഡലും സാച്ചുറേഷൻ മേഖലയിൽ മറ്റൊരു ഇൻക്രിമെന്റൽ മോഡലും ഉണ്ടാകും അതിനാൽ ഞങ്ങൾ ഇപ്പോൾ ഇവ പരിഗണിക്കും ആദ്യം ഞങ്ങൾ സാച്ചുറേഷൻ മേഖലയിലെ ചെറിയ സിഗ്നൽ ഇൻക്രിമെന്റൽ മോഡൽ നോക്കും ഇത് ഡ്രെയിൻ കറന്റിനുള്ള സമ്പൂർണ്ണ പദപ്രയോഗമാണ് തീർച്ചയായും ചെറിയ സിഗ്നൽ മോഡൽ എന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് ഞങ്ങൾക്കറിയാം പൊതുവെ ഇതിൽ ഈ നാല് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു Y22 Y11 Y12 V2 ഇവിടെ ഇത് V2 ആണ് രണ്ട് Y21 v1 ഇവിടെ ഇത് v1 ഒരു MOS ട്രാൻസിസ്റ്ററിൽ Y11 Y12 എന്നിവ പൂജ്യമാണെന്ന് നമുക്കറിയാം കാരണം ഗേറ്റ് കറന്റ് പൂജ്യമാണ് അതിനാൽ ഈ പ്രതിരോധം ഒരു ഓപ്പൺ സർക്യൂട്ടാണ് ഈ കറന്റ് സോഴ്സ് പൂജ്യവും ഒരു ഓപ്പൺ സർക്യൂട്ടാണ് കൂടാതെ Y21 എന്നത് V1 നെ സംബന്ധിച്ചുള്ള I2 ന്റെ ഭാഗിക ഡെറിവേറ്റീവ് ആണ് അല്ലെങ്കിൽ VGS ഗേറ്റ് സോഴ്സ് വോൾട്ടേജുമായി ബന്ധപ്പെട്ട് ID ഡ്രെയിൻ കറന്റ് ആണ് ഇത് വേർതിരിക്കുന്നതിലൂടെ നമുക്ക് എളുപ്പത്തിൽ നേടാനാകും ഇത് mu n C ox W ന് L തവണ VGS മൈനസ് VT കൊണ്ട് തുല്യമാണ് ഞങ്ങൾ ഒരു MOS ട്രാൻസിസ്റ്ററിനെ പരാമർശിക്കുമ്പോൾ ഞങ്ങൾ Y21 എന്ന ജനറിക് ടെർമിനോളജി ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ ഇതിനെ g m എന്ന് വിളിക്കുന്നു പൊതുവേ g m എന്നത് ട്രാൻസ് കണ്ടക്റ്റൻസിന്റെ പ്രതീകമാണ് അത് പോർട്ട് ഒന്ന് മുതൽ പോർട്ട് രണ്ടിലേക്കുള്ള ട്രാൻസ്ഫർ കണ്ടക്ടൻസാണ് കൂടാതെ ഈ Y21 MOS ട്രാൻസിസ്റ്ററിന്റെ സന്ദർഭത്തിൽ g m എന്ന് സൂചിപ്പിക്കും അതിന്റെ എക്സ്പ്രഷൻ ഇവിടെ നൽകിയിരിക്കുന്നു ഇത് ഓപറേറ്റിങ് പോയിന്റിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ എടുത്ത മൂല്യങ്ങൾക്കായി mu n C ox W ന്റെ L ന്റെ 100 മൈക്രോ ആമ്പിയർ ഒരു വോൾട്ട് സ്ക്വയറിലും VT എന്നത് ഒരു വോൾട്ട് ആണ് VGS ന് രണ്ട് വോൾട്ടിന് തുല്യമാണ് g m എന്നത് നൂറ് മൈക്രോ സീമെൻസ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയും ഇവിടെ പരാൻതീസിസിലെ ഈ പദം VGS മൈനസ് VT ഒരു വോൾട്ട് ആയിരിക്കും ഈ സ്ഥിരാങ്കം ഒരു വോൾട്ട് സ്ക്വയറിന് നൂറ് മൈക്രോആമ്പിയർ ആണ് അതിനാൽ ട്രാൻസ് കണ്ടക്ടൻസ് ഒരു വോൾട്ടിന് നൂറ് മൈക്രോ ആമ്പിയർ അല്ലെങ്കിൽ നൂറ് മൈക്രോ സീമെൻസ് ആണ് VDS അല്ലെങ്കിൽ V2 വുമായി ബന്ധപ്പെട്ട് ID യുടെ ഭാഗിക ഡെറിവേറ്റീവ് ആയ Y22 തീർച്ചയായും പൂജ്യമാണ് കാരണം ഈ പദപ്രയോഗത്തിൽ VDS നെ ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇത് ഏകദേശം മാത്രമാണെന്ന് നമുക്ക് പിന്നീട് കാണാം ഇത് കൃത്യമായി പൂജ്യമായിരിക്കില്ല എന്നാൽ ആ വശം ഞങ്ങൾ പിന്നീട് പരിഗണിക്കും MOSFET ന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ Y22 പോലെയുള്ള പൊതുവായ പദാവലി ഉപയോഗിക്കുന്നില്ല ഇതിനെ g d s എന്ന് വിളിക്കുന്നു ഡ്രെയിൻ ടു സോഴ്സ് കണ്ടക്റ്റൻസ് അതിനാൽ ഇപ്പോൾ നമുക്ക് സാച്ചുറേഷൻ മേഖലയിൽ കാണാൻ കഴിയും MOS ട്രാൻസിസ്റ്ററിന്റെ മാതൃക വളരെ ലളിതമാണ് ഇവ രണ്ടും എന്തായാലും പൂജ്യമാണ് കൂടാതെ Y22 അല്ലെങ്കിൽ g d s ഉം പൂജ്യമാണ് അതിനാൽ ഇതും ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ MOS ട്രാൻസിസ്റ്ററിൽ ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് അടങ്ങിയിരിക്കുന്നു അതിന്റെ മൂല്യം ഇത് നൽകുന്നു അതിനാൽ സാച്ചുറേഷൻ മേഖലയിലെ MOS ട്രാൻസിസ്റ്ററിന്റെ ചെറിയ സിഗ്നൽ ഇൻക്രിമെന്റൽ മോഡൽ നമുക്ക് ഇൻക്രിമെന്റൽ വോൾട്ടേജ് V1 ഉണ്ടായിരിക്കും അത് തീർച്ചയായും VGS എന്ന് പരാമർശിക്കുന്നു വോൾട്ടേജ് V2 VDS ആയിരിക്കും ഈ കറന്റ് g m തവണ VGS ആണ് കൂടാതെ ചാലകത പൂജ്യവുമാണ് ഇവിടെ ഒരു ചാലകത ഉണ്ടായിരിക്കും പക്ഷേ ഡ്രെയിൻ കറന്റ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിനെ ആശ്രയിക്കാത്തതിനാൽ ഈ ചാലകത പൂജ്യമാണ് കൂടാതെ g m എന്നതിന്റെ പദപ്രയോഗം mu C ox W L തവണ VGS മൈനസ് VT ആണ് നൽകുന്നത് അതിനാൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത ഗെയിൻ ലഭിക്കണമെങ്കിൽ g m ന്റെ മൂല്യം എങ്ങനെ കണക്കാക്കാമെന്ന് നിങ്ങൾക്കറിയാം ട്രാൻസിസ്റ്റർ ഏത് പ്രവർത്തന പോയിന്റാണ് സജ്ജമാക്കേണ്ടതെന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും നമുക്ക് പിന്നീട് ആംപ്ലിഫയർ ഉദാഹരണത്തിലേക്ക് വരാം ഇപ്പോൾ നമുക്ക് ട്രയോഡ് മേഖലയിലോ ലീനിയർ മേഖലയിലോ ഉള്ള ചെറിയ സിഗ്നൽ ഇൻക്രിമെന്റൽ മോഡൽ നോക്കാം കറന്റിന്റെ എക്സ്പ്രഷൻ mu n C ox W ബൈ L തവണ VGS മൈനസ് VT തവണ VDS മൈനസ് VDS സ്ക്വിർ 2 ആണ് ഇപ്പോൾ വീണ്ടും Y11 ഉം Y12 പൂജ്യവും ഉള്ള അതേ മാതൃക നമുക്ക് ലഭിക്കും നമുക്ക് Y21 V1 ഉണ്ടായിരിക്കും അത് MOSFET ന്റെ പദാവലിയിൽ g m തവണ VGS ആണ് കൂടാതെ Y22 MOSFET ടെർമിനോളജിയിൽ gds ഉം ഈ വോൾട്ടേജ് VDS ഉം ആണ് VGS നെ സംബന്ധിച്ചുള്ള ID യുടെ ഭാഗിക ഡെറിവേറ്റീവാണ് ഈ ട്രാൻസ് കണ്ടക്ടൻസ് gm നൽകിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് L സമയങ്ങളിൽ mu n C ox W ആയി എളുപ്പത്തിൽ പ്രവർത്തിക്കാനാകും ഇപ്പോൾ VDS നെ സംബന്ധിച്ചുള്ള ID യുടെ ഭാഗിക ഡെറിവേറ്റീവുകൾ ആയ കണ്ടക്ടൻസ് gds എന്നത് mu n C ox W ൽ L തവണ VGS മൈനസ് VT മൈനസ് VDS ആണ് നൽകുന്നത് അതിനാൽ നമുക്ക് ഇവ രണ്ടും കുറച്ചുകൂടി വിശദമായി പരിശോധിക്കാം പക്ഷേ g d s പൂജ്യമല്ല എന്നതാണ് കാര്യം ഉയർന്ന നേട്ടം നൽകുന്ന ഒരു നല്ല ആംപ്ലിഫയറിന് ആവശ്യമായ നിയന്ത്രണങ്ങൾ ഞങ്ങൾ വിലയിരുത്തി Y22 അല്ലെങ്കിൽ g ds 0 ആയിരിക്കണമെന്ന് ഞങ്ങൾ കണ്ടു എന്നാൽ ഈ സാഹചര്യത്തിൽ അത് 0 അല്ല അതിനാൽ ട്രയോഡ് പ്രദേശം ഒരു ആംപ്ലിഫയർ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമുള്ള മേഖലയല്ലാത്തതിന്റെ കാരണം ഇതാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ട്രയോഡ് മേഖലയിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് സജ്ജീകരിക്കാനും അത് ഒരു ആംപ്ലിഫയർ പോലെ പ്രവർത്തിക്കാൻ ശ്രമിക്കാനും കഴിയും എന്നാൽ ഇത് സാച്ചുറേഷൻ മേഖലയിൽ ഉള്ളത് പോലെ ട്രയോഡ് മേഖലയിൽ നല്ല ഒരു ആംപ്ലിഫയർ ആയിരിക്കില്ല അതിനാൽ അത് ചെയ്യുന്നതിന് ഈ രണ്ട് മേഖലകൾ സാച്ചുറേഷൻ മേഖല ട്രയോഡ് അല്ലെങ്കിൽ ലീനിയർ മേഖല എന്നിവ തമ്മിൽ ഞങ്ങൾ ഈ അളവുകൾ താരതമ്യം ചെയ്യും അതിനാൽ സാച്ചുറേഷൻ മേഖലയിൽ g m മൂല്യം നൽകുന്നത് mu n C ox W L VGS മൈനസ് VT ആണ് കൂടാതെ ട്രയോഡ് മേഖലയിൽ ഇത് mu n C ox W ൽ നൽകിയിരിക്കുന്നത് L തവണ VDS ആണ് കൂടാതെ VGS മൈനസ് VT നേക്കാൾ ചെറുതായ VDS ആണ് ട്രയോഡ് മേഖലയെ നിർവചിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾ ഏത് gm ആണെന്നത് വളരെ വ്യക്തമാണ് ട്രയോഡ് മേഖലയിൽ നേടുക സാച്ചുറേഷൻ മേഖലയേക്കാൾ ചെറുതായിരിക്കും അതിനാൽ ട്രയോഡിലെ g m സാച്ചുറേഷൻ മേഖലയിലെ gm നേക്കാൾ കുറവായിരിക്കും ഞങ്ങളുടെ മാതൃക അനുസരിച്ച് സാച്ചുറേഷൻ മേഖലയിലെ g d s മൂല്യം പൂജ്യമാണ് ഇത് പൂജ്യമല്ലാത്ത ഒരു ചെറിയ മൂല്യമാണെന്ന് പിന്നീട് നമുക്ക് കാണാം ട്രയോഡ് മേഖലയിൽ ഇത് LVGS മൈനസ് VT മൈനസ് VDS കൊണ്ടുള്ള mu n C ox W ആണ് VDS ന്റെ മൂല്യം തന്നെ ഇതിനിടയിലായിരിക്കും അതിനാൽ ഈ g d s കുറച്ച് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും അതിനാൽ ട്രയോഡ് മേഖലയിലെ g d s സാച്ചുറേഷൻ മേഖലയേക്കാൾ കൂടുതലാണ് ട്രയോഡ് മേഖലയിൽ g m സാച്ചുറേഷൻ മേഖലയേക്കാൾ കുറവാണ് അതിനാൽ ട്രയോഡ് മേഖലയിൽ പക്ഷപാതമുള്ള ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നിങ്ങൾ നിർമ്മിക്കുന്ന ഏതൊരു ആംപ്ലിഫയറിനും അത് സാച്ചുറേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ചെറിയ ഗെയിനായിരിക്കും ഈ സാഹചര്യത്തിൽVDS പൂജ്യത്തിൽ നിന്ന് VGS മൈനസ് VT ലേക്ക് പോകുമ്പോൾ g d s mu n C ox W ൽ നിന്ന് L മടങ്ങ് VGS മൈനസ് VT ൽ നിന്ന് പൂജ്യത്തിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും g m മാറുന്നത് കാണാൻ കഴിയും ഇതിൽ VDS തുടക്കത്തിൽ പൂജ്യമായിരിക്കും പൂജ്യം മുതൽ mu n C ox W വരെയുള്ള L VGS മൈനസ് VT അതിനാൽ പരസ്പര പൂരകമായ രീതിയിൽ ഈ രണ്ട് മാറ്റങ്ങൾ V d s പൂജ്യമാകുമ്പോൾ g d s ആണ് പരമാവധി അതായത് ട്രാൻസിസ്റ്ററിന് അതിൽ വോൾട്ടേജ് ഇല്ല വാസ്തവത്തിൽ g d s ന്റെ മൂല്യം സാച്ചുറേഷൻ മേഖലയിലെ g m ന്റെ മൂല്യത്തിന് തുല്യമാണ് അത് പൂജ്യമായി കുറയുന്നു അതേസമയം g m പൂജ്യത്തിൽ നിന്ന് mu n C ox W ലേക്ക് L VGS മൈനസ് VT ആയി വർദ്ധിക്കുന്നു ചിത്രപരമായി VGS ഉറപ്പിച്ചതായി ഞങ്ങൾ അനുമാനിക്കും ഈ മൂല്യം mu n C ox W യുടെ L VGS മൈനസ് VT ആണ് അതിനാൽ g d s ഇവിടെ നിന്ന് ആരംഭിക്കുന്നു തുടർന്ന് പൂജ്യത്തിലേക്ക് രേഖീയമായി വീഴുന്നു അതിനുശേഷം അത് നമ്മുടെ കറന്റ് മാതൃക അനുസരിച്ച് നിലനിൽക്കും കൂടാതെ g m പൂജ്യത്തിൽ നിന്ന് ആരംഭിക്കുന്നു അത് രേഖീയമായി വർദ്ധിക്കുകയും VDS ൽ ഈ മൂല്യത്തിന്റെ പരമാവധി എത്തുകയും VGS മൈനസ് VT ന് തുല്യമാവുകയും സ്ഥിരമായി തുടരുകയും ചെയ്യുന്നു അതിനാൽ ഇത് സാച്ചുറേഷൻ മേഖലയാണ് ഇത് ട്രയോഡ് അല്ലെങ്കിൽ രേഖീയ മേഖലയാണ് അതിനാൽ ഏറ്റവും ഉയർന്ന ട്രാൻസ് കണ്ടക്ടൻസും ഏറ്റവും കുറഞ്ഞ ഔട്ട്പുട്ട് കണ്ടക്ടൻസും ലഭിക്കുന്നതിന് നിങ്ങൾ സാച്ചുറേഷൻ മേഖലയിൽ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും